ഈ മൊഡ്യൂളിലേക്ക് സ്വാഗതം ഈ മൊഡ്യൂൾ നമ്മളുടെ അവസാന മൊഡ്യൂളിന്റെ തുടർച്ചയാണ് അതിൽ നിങ്ങൾ ഓപ്പ് ആംപ് ഡാറ്റ ഷീറ്റിലേക്ക് നോക്കുകയായിരുന്നു തുടർന്ന് നമ്മൾ ഓപ്പ് ആമ്പിന്റെ സവിശേഷതകൾ നോക്കുകയായിരുന്നു ഇൻപുട്ട് ബയസ് കറന്റ് എന്താണെന്നും എങ്ങനെ ഇൻപുട്ട് ബയസ് കറന്റിന്റെ പ്രഭാവം outputൽ നിന്നു നീക്കംചെയ്യാമെന്നും നമ്മൾ കണ്ടു ഈ മൊഡ്യൂൾ കൃത്യമായി എന്താണ് ഒരു ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ് എന്നും ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ് എങ്ങനെ ആംപ്ലിഫയർ പ്രവർത്തനത്തെ ശരിയായി ബാധിക്കും എന്നും മനസ്സിലാക്കിതരും ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ് എന്താണെന്ന് നമ്മൾ ഇതിനകം കണ്ടു മുമ്പത്തെ പ്രഭാഷണങ്ങളിൽ നാം കണ്ട ഫോർമുലയും ഇപ്പോൾ നമുക്ക് നന്നായി അറിയാം ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റിന്റെ സൂത്രവാക്യം | Ib1 Ib2 | അല്ലേ ഇൻപുട്ട് ബയസ് കറന്റ് | Ib1 Ib2 | 2 ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ് | Ib1 Ib2 | അങ്ങനെ അല്ലേ ഇപ്പോൾ ഇത് ആംപ്ലിഫയർ പ്രവർത്തനത്തെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം അതിനാൽ സ്ലൈഡ് കണ്ടാൽ എനിക്ക് എന്ത് കണ്ടെത്താനാകും നമ്മൾക്ക് ഇതിനകം തന്നെ അറിയാവുന്ന ഇൻപുട്ട് ഓഫ്സെറ്റ്ൻറെ നിലവിലെ നിർവചനം ഞാൻ കണ്ടെത്തി സാധാരണ 741 നുള്ള ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ് പരമാവധി 200 നാനോ ആമ്പിയർ ആണെന്ന് ഞാൻ കാണുന്നു ഇൻപുട്ട് ടെർമിനലുകളിലേക്കുള്ള പൊരുത്തപ്പെടുത്തൽ മെച്ചപ്പെടുത്തി യതിനാൽ ഐബി 1 ഉം ഐബി 2 ഉം തമ്മിലുള്ള വ്യത്യാസം ചെറുതായിത്തീരുന്നു അതായത് ഇൻപുട്ട് ഓഫ്സെറ്റ് നിലവിലെ മൂല്യം കൂടുതൽ കുറയുന്നു ഇപ്പോൾ Op Amp 741 ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റിന്റെ കൃത്യതയ്ക്കായി ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ് 6 നാനോ ആമ്പിയർ ആണെന്ന് കാണുന്നു അതിനാൽ ഇൻപുട്ട് ഓഫ്സെറ്റ് കറൻറ് ഒരു കൃത്യമായ ഒപ് ആമ്പിനായി 6 നാനോ ആമ്പിയറുകൾ ആണ് ഓപ് ആമ്പിലെ ഓഫ്സെറ്റ് കറന്റിന്റെ സ്വാധീനം മനസിലാക്കാൻ ഈ പ്രത്യേക ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ ഒരു വിപരീത കോൺഫിഗറേഷൻ പരിഗണിക്കാം അതിനാൽ അവിടെ ഒരു R1 ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തുന്നു അവിടെ R2 വിപരീത ഓപ് ആംപ് ഉണ്ട് തുടർന്ന് നമുക്ക് R3 ഉണ്ട് അത് R1 ന് സമാന്തരമായി R2 ന് തുല്യമാണെന്ന് നമ്മൾക്കറിയാം ഇപ്പോൾ ഞാൻ ഇവിടെ നോഡിൽ കിർചോഫിന്റെ കറൻറ് നിയമം പ്രയോഗിച്ചാൽ I1 I2 Ib1 ആയിരിക്കും അതിനാൽ വെർച്വൽ ഗ്രൌണ്ട് പ്രയോഗിക്കുമ്പോൾ എനിക്ക് Vin V Ib എന്നും കിട്ടും Ib ഇവിടെ Ib ആയിരിക്കും അതായത് I1 I2 ആയിരിക്കും അതിനാൽ ഇവിടെത്തന്നെ വോൾട്ടേജായ V മൈനസ് V Ib ന് തുല്യമായിരിക്കും കിർചോഫിൽ നിലവിലെ നിയമം അനുസരിച്ച് Ib R3 R1 എന്നാൽ Ib R3 Vo R2 ന് തുല്യമായിരിക്കും അതിനാൽ ഞാൻ ഈ സമവാക്യം കൂടുതൽ പരിഹരിച്ചാൽ എനിക്ക് എന്ത് ലഭിക്കും ഇപ്പോൾ ഒരു ഓപ് ആമ്പിന്റെ സാധാരണ ഓഫ്സെറ്റ് കറന്റ് 200 നാനോ ആമ്പിയറുകളാണ് ഇത് ഒപ് മെമ്പിൽ ഒരു മെഗാ ഓമിന്റെ ഫീഡ്ബാക്ക് പ്രതിരോധം ഉപയോഗിച്ച് 200 മുതൽ 1 വരെ output വോൾട്ടേജ് ഉത്പാദിപ്പിക്കും 0 ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജിന് 200 മില്ലിയാംപിയർ ആണ് ഇതാണ് മാറ്റം 200 output വോൾട്ടേജിൽ ജനറേറ്റുചെയ്യുന്ന ഏകദേശം 200 മില്ലിവോൾട്ട് സർക്യൂട്ടുകൾക്ക് വളരെ ഉയർന്നതായിരിക്കാം അതിനാൽ ഇത് കുറയ്ക്കുന്നതിനുള്ള മാർഗ്ഗം ഫീഡ്ബാക്ക് പ്രതിരോധം ചെറുതായി വെക്കണം എന്നതാണ് നിർഭാഗ്യവശാൽ ഉയർന്ന ഇൻപുട്ട് ഇംപെഡൻസ് നേടുന്നതിന് R1 വലുതായിരിക്കണം അല്ലെങ്കിൽ ഉയർന്ന ഇൻപുട്ട് ഇംപെഡൻസ് ഉണ്ടാകില്ലെന്നും ഒപ് ആമ്പിൽ നമ്മൾക്കറിയാം നമ്മൾക്ക് വളരെ ഉയർന്ന ഇൻപുട്ട് ഇംപെഡൻസ് ഉണ്ടായിരിക്കണം അതിനാൽ നമ്മൾക്ക് അത് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഫീഡ്ബാക്ക് റെസിസ്റ്റർ R2 ഉം ഉയർന്നതായിരിക്കണം അല്ലെങ്കിൽ നമ്മൾക്ക് ഒരേ പ്രശ്നം തന്നെ വരും എനിക്ക് R1 ന്റെ മൂല്യം കുറയ്ക്കാൻ കഴിയുമോ അല്ലെങ്കിൽ R2 ന്റെ മൂല്യം കുറയ്ക്കാൻ കഴിയുമെങ്കിൽ എനിക്ക് മിനിമം ഇഫക്റ്റ് ഉണ്ട് പക്ഷേ എനിക്ക് R2 ന്റെ മൂല്യം കുറയ്ക്കാൻ കഴിയില്ല അതിനാൽ ഈ പോയിന്റ് വരെ എനിക്ക് പരിഹാരമില്ല അതിനാൽ ഞാൻ ഓഫ്സെറ്റ് കറന്റ് കാരണം ഉള്ള പ്രഭാവം നികത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇവിടെയുള്ള ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും അത് ഒരു T പോലെ കാണപ്പെടുന്നു അതിനാലാണ് T ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് കാണിച്ചിരിക്കുന്നതെന്ന് നമ്മൾ പറയുന്നത് ഇത് ഒരു നല്ല പരിഹാരമാണ് ഒരു നല്ല പരിഹാരം എന്നത് ഡോട്ട് ഇട്ട നെറ്റ്വർക്കിൽ കാണിച്ചിരിക്കുന്നതുപോലെ ഇൻപുട്ട് വിപരീതമാക്കിക്കൊണ്ട് നിലത്തേക്കുള്ള പ്രതിരോധം നിലനിർത്തിക്കൊണ്ട് വലിയ ഫീഡ്ബാക്ക് പ്രതിരോധം അനുവദിക്കുക ഇപ്പോൾ ഒരു മൂല്യമുണ്ടെങ്കിൽ എനിക്ക് Rs മൂല്യമുണ്ടാകാം കൂടാതെ എനിക്ക് Rt ന്റെ മൂല്യം ഉണ്ടാക്കാനും കഴിയും അതിനാൽ ഈ സമവാക്യങ്ങളിൽ നിന്ന് നമുക്ക് അറിയേണ്ട 2 കാര്യങ്ങൾ നമുക്ക് രൂപകൽപ്പന ചെയ്യാൻ കഴിയും ഓഫ്സെറ്റ് കറന്റിന്റെ പ്രഭാവം നീക്കംചെയ്യുന്നതിനും മൂല്യം എങ്ങനെ തിരഞ്ഞെടുക്കാമെന്നതിനും ഒരു നല്ല compenstaion സർക്യൂട്ടായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സർക്യൂട്ട് രൂപകൽപ്പന ചെയ്യാൻ നമ്മൾക്ക് കഴിയും Rt ന്റെ മൂല്യവും Rs ന്റെ മൂല്യവും എങ്ങനെ തിരഞ്ഞെടുക്കാം ഇപ്പോൾ നമുക്ക് ഒരു ഉദാഹരണം നോക്കാം മൈനസ് 10 ന്റെ നേട്ടം നേടുന്നതിന് 741 ഉപയോഗിച്ച് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന തരത്തിന്റെ വിപരീത ആംപ്ലിഫയർ രൂപകൽപ്പന ചെയ്യാം കൂടാതെ 10 മെഗാ ഓമുകളുടെ ഇൻപുട്ട് ഇംപെഡൻസും ഉണ്ട് Rt Rs R1 എന്നിവ കണക്കാക്കണം ഇതാണ് പ്രശ്നം അതിനാൽ പരിഹാരം കണ്ടെത്താം പക്ഷേ gain Rf R1 ആണ് അതിനാൽ Rf gain R1 ഇപ്പോൾ മറ്റൊരു പോയിന്റ് നമുക്ക് നോക്കാം അതായത് ആംപ്ലിഫയർ പ്രവർത്തനത്തിലെ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജിന്റെ പ്രഭാവം മനസിലാക്കേണ്ടതുണ്ട് ആംപ്ലിഫയർ പ്രവർത്തനത്തിൽ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജിന്റെ പ്രഭാവം നമ്മൾ ഇപ്പോൾ കാണും ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്താണ് മറ്റൊരു പ്രായോഗിക ആശങ്ക ആയ ഓപ് ആംപ്ന്റെ വോൾട്ടേജ് ഓഫ്സെറ്റ് നമ്മൾക്ക് ഇതിനകം തന്നെ അറിയാം ഓപ്സെറ്റ് കറന്റ് ബയസ് കറന്റ് എന്നിവ മൂലമുണ്ടായ പ്രഭാവം നികത്തപ്പെട്ടു Op Amp ന്റെ output ഇപ്പോഴും 0 ആയിരിക്കില്ല ഇത് Op Amp നുള്ളിലെ ഒഴിവാക്കാനാവാത്ത അസന്തുലിതാവസ്ഥ മൂലമാണ് 2 ഇൻപുട്ട് ടെർമിനലുകൾ ഒരുമിച്ച് ഹ്രസ്വമാക്കുമ്പോൾ 0 വോൾട്ട് ഒഴികെയുള്ള output വോൾട്ടേജ് ഉള്ളതിന്റെ ഫലമുണ്ട് അതിനാൽ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടു 2 ഇൻപുട്ട് കണക്ഷനുകൾക്കിടയിലുള്ള വോൾട്ടേജിലെ വ്യത്യാസം വർദ്ധിപ്പിക്കുന്നതിന് ഓപ്പ് ആംപ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറാണെന്നും output ഇൻപുട്ട് വോൾട്ടേജ് വ്യത്യാസം കൃത്യമായി 0 വോൾട്ട് ആയിരിക്കുമ്പോൾ കൂടുതലല്ലെന്നും ഓർക്കുക output 0 ആകുന്നത് ഒഴികെ എന്നിരുന്നാലും യഥാർത്ഥ ലോകത്ത് ഇത് ശരിക്കും സംഭവിക്കുന്നത് സമവാക്യത്തിലെ ഒപ് ആമ്പിൽ 0 കോമൺ മോഡ് നേട്ടമുണ്ടെങ്കിൽ output വോൾട്ടേജ് 0 ആയിരിക്കില്ല പക്ഷേ ഈ വ്യതിയാനം നിങ്ങളുടെ ഓഫ്സെറ്റാണ് രണ്ട് ഇൻപുട്ടുകളും ഇവിടെ അടുക്കുന്നതുപോലെ ഇൻപുട്ടുകൾ അടുക്കുകയും output 0 വോൾട്ട് ആയിരിക്കണം എന്നാൽ മിക്ക ഒപ് ആമ്പുകളും അവയുടെ output കളെ നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ആയി പൂരിത തലത്തിലേക്ക് നയിക്കും തന്നിരിക്കുന്ന കണക്കിൽ പൂരിത വോൾട്ടേജ് 14 7 വോൾട്ട് എന്നത് 15 വോൾട്ടിനേക്കാൾ അല്പം കുറവാണ് കാരണം ഈ ഓപ് ആമ്പിലെ ഓഫ്സെറ്റ് output നെ പൂർണ്ണമായും പൂരിത സ്ഥാനത്തേക്ക് നയിക്കുന്നു അതിനാൽ output ൽ നിലവിലുള്ള ഓഫ്സെറ്റിന്റെ അളവ് കണക്കാക്കുന്നത് വളരെ പ്രയാസമാണ് ഇപ്പോൾ ഓഫ്സെറ്റ് വോൾട്ടേജിന്റെ ഈ പ്രഭാവം എങ്ങനെ പരിഹരിക്കും അതിനാൽ ഇവയെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാന പോയിന്റുകളാണ് കാരണം ഓഫ്സെറ്റ് വോൾട്ടേജിന്റെ പ്രഭാവം നമ്മൾ നികത്തേണ്ടത് വളരെ പ്രധാനമാണ് ഇൻപുട്ട് ബയസ് കറന്റിന്റെ പ്രഭാവം നമ്മൾ നികത്തുന്നു ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റിന്റെ പ്രഭാവം നമ്മൾ നികത്തുന്നു അതിനാൽ ടെർമിനലുകൾ നിലത്തുവീഴുമ്പോൾ എല്ലാം നമ്മുടെ output 0 ആയിരിക്കണം അങ്ങനെയാണ് നമുക്ക് ഓഫ്സെറ്റ് ഉള്ളത് നമ്മുടെ ഓഫ്സെറ്റ് തികഞ്ഞതായിരിക്കണം അതായത് നമ്മുടെ output വോൾട്ടേജ് 0 ആയിരിക്കണം അത് ശൂന്യമായിരിക്കണം അതിനാൽ ഈ പാരാമീറ്ററുകൾ മനസിലാക്കുന്നതും ഈ സ്വഭാവം മനസ്സിലാക്കുന്നതും അനുസരിച്ച് ആംപ്ലിഫയർ ശരിയായി രൂപകൽപ്പന ചെയ്യാൻ നിങ്ങളെ സഹായിക്കും ഇപ്പോൾ നിങ്ങൾ സ്ലൈഡിലേക്ക് തിരികെ പോയാൽ ഓഫ്സെറ്റ് വോൾട്ടേജിന്റെ പ്രഭാവം നമ്മൾ എങ്ങനെ നികത്താമെന്ന് കാണാം മറ്റ് വഴികളിലൂടെ ഓഫ്സെറ്റ് വോൾട്ടേജ് മൂലമുണ്ടായ ഇഫക്റ്റിന് ഇത് നികത്താനുള്ള ഒരു മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ output വോൾട്ടേജ് 0 avan ഇൻപുട്ടുകളിലൊന്നിൽ ശ്രേണിയിൽ ചെറിയ വോൾട്ടേജ് പ്രയോഗിക്കുക എന്നതാണ് ഒപ് ആം ഡിഫറൻഷ്യൽ നേട്ടങ്ങൾ ഉയർന്നതാണ് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജിന്റെ ഇൻപുട്ടുകൾ ശരിയായി ചുരുക്കിയിട്ടുണ്ടെങ്കിലും output വലിയ സ്വാധീനം ചെലുത്തേണ്ടതില്ല ഡിഫറൻഷ്യൽ നേട്ടം വളരെ ഉയർന്നതിനാൽ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജിന്റെ പ്രഭാവം നമ്മളുടെ output നെ ശരിക്കും ബാധിക്കില്ല അവ സാധാരണയായി പാക്കേജുചെയ്ത ഓപ്പ് ആമ്പിന്റെ ഓഫ്സെറ്റ് ട്രിം ചെയ്യുന്നതിന് നിർമ്മാതാവ് നൽകുന്ന വ്യവസ്ഥകളാണ് ഓപ്പ് ആമ്പ് പാക്കേജിലെ 2 അധിക ടെർമിനലുകൾ സാധാരണയായി ഒരു ബാഹ്യ ട്രിം പൊട്ടൻഷ്യോമീറ്റർ കണക്റ്റുചെയ്യുന്നതിനായി കരുതിവച്ചിരിക്കുന്നു ഈ കണക്ഷൻ പോയിന്റുകൾ ഓഫ്സെറ്റ് ശൂന്യമെന്ന് ലേബൽ ചെയ്തിരിക്കുന്നു അതിനാൽ നിങ്ങൾ ഐസി കണ്ടിട്ടുണ്ടെങ്കിൽ ടെർമിനൽ 1 5 എന്നിവ ഓഫ്സെറ്റ് ശൂന്യമായി ഉപയോഗിക്കുന്നു 741 പോലുള്ള സിംഗിൾ ഒപ്പ് ആംപ് 8 പിൻ ഡിഐപി പാക്കേജിലെ 1 5 കണക്ഷൻ പോയിന്റുകളുടെ പ്രഭാവം ഓഫ്സെറ്റ് ശൂന്യമായി നിർത്തുവാൻ ഉപയോഗിക്കുന്നു അതിനാൽ നമ്മൾ 1 നും 5 നും ഇടയിൽ ഒരു പൊട്ടൻഷ്യോമീറ്റർ കണക്റ്റുചെയ്യുന്നു ഒപ്പം നമ്മളുടെ output വോൾട്ടേജ് 0 ആകുന്ന തരത്തിൽ പൊട്ടൻഷ്യോമീറ്റർ ട്രിം ചെയ്യുന്നു അതിനാൽ നമ്മൾ ആദ്യം കാണുന്ന ഒപ് ആമ്പ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന വിപരീതമല്ലാത്ത ആംപ്ലിഫയറിനാണ് R1 1 കിലോ ഓം Rf 10 കിലോ ഓം Ib യിലെ Vos കാരണം പരമാവധി output ഓഫ്സെറ്റ് വോൾട്ടേജ് കണക്കാക്കുക Op Amp l m ഏഴ് l m 307 ആണ് ഇവിടെ Vos 10 മില്ലിവോൾട്ടുകളും Ib 300 നാനോ ആമ്പിയർഉം Iio 50 നാനോ ആമ്പിയർ ആണ് അതിനാൽ ആദ്യത്തെ കാര്യം നമ്മൾ പരമാവധി ഓഫ്സെറ്റ് വോൾട്ടേജ് കണക്കാക്കണം എന്നതാണ് നമ്മളുടെ output വോൾട്ടേജ് VoT 110 5 മില്ലിവോൾട്ടുകളായിരിക്കും റഫർ സമയം 1424 ഈ ഉദാഹരണത്തിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് കൂടുതൽ ഉത്തരവാദിത്തമുള്ള ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജാണ് ഇൻപുട്ട് ബയസ് നിലവിലെ Ibയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓഫ്സെറ്റ് വോൾട്ടേജ് നിർമ്മിക്കുന്നതിന് കൂടുതൽ ഉത്തരവാദിത്തമുള്ള ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജാണ് ഇത് അതിനാൽ output ഓഫ്സെറ്റ് വോൾട്ടേജ് ഉൽപാദിപ്പിക്കുന്നതിനുള്ള കൂടുതൽ ഉത്തരവാദിത്തം എന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇൻപുട്ട് ബയസ് കറന്റ് എന്താണ് എന്താണ് ഇൻപുട്ട് ബയസ് കറന്റ് എന്താണ് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്താണ് ഈ ഉദാഹരണത്തിൽ നിന്നുള്ള output ഓഫ്സെറ്റ് വോൾട്ടേജ് output ഓഫ്സെറ്റ് വോൾട്ടേജ് ഉൽപാദിപ്പിക്കുന്നതിന് ഇൻപുട്ട് ഓഫ്സെറ്റ് കറൻറ്നേക്കാൾകൂടുതൽ ഉത്തരവാദിത്തമുള്ളത് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജാണെന്ന് നമ്മൾ കണ്ടു അതിനാൽ നിങ്ങൾ ഒരു പ്രശ്നം കാണുമ്പോൾ അത് മനസ്സിലാക്കണം ഈ പ്രശ്നത്തിന്റെ പങ്ക് എന്താണ് നമ്മൾ ശരിയായി രൂപകൽപ്പന ചെയ്യുന്ന അന്തിമ ഫലത്തിന്റെ ഫലമായുണ്ടാകുന്ന പാരാമീറ്ററുകൾ എന്തൊക്കെയാണ് ഈ സാഹചര്യത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇൻപുട്ട് ടെർമിനൽ രണ്ടും ground ചെയ്യുമ്പോൾ 0 output ആയിരിക്കണം എന്നതാണ് അത് ശരിയായി മനസിലാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മാത്രമാണ് അടുത്ത മൊഡ്യൂളിൽ നിങ്ങൾ ഒപ് ആമ്പിന്റെ കൂടുതൽ സ്വഭാവ സവിശേഷതകൾ കാണും ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജിന്റെ പങ്ക് എന്താണ് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജിന് നമ്മൾ എങ്ങനെ നഷ്ടപരിഹാരം നൽകണം ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ്ന് എങ്ങനെ നഷ്ടപരിഹാരം നൽകാമെന്നും നമ്മൾ കാണും ഈ പ്രത്യേക പ്രഭാഷണത്തിന്റെ അവസാന മൊഡ്യൂളായ അടുത്ത മൊഡ്യൂളിൽ ഡാറ്റാ ഷീറ്റിൽ ഇതിനകം തന്നെ സൂചിപ്പിച്ചിരിക്കുന്ന ഒപ് ആമ്പിന്റെ കൂടുതൽ സവിശേഷതകൾ നമ്മൾ കാണും അതുവരെ നിങ്ങൾ ശ്രദ്ധിക്കുക അടുത്ത മൊഡ്യൂളിൽ ഞാൻ നിങ്ങളെ കാണും